നമസ്കാരം മെക്കാനോബയോളജിക്ക് ഒരു ആമുഖം എന്ന നമ്മുടെ NPTEL കോഴ്സിൻറെ മൂന്നാം ആഴ്ചയിലെ ലക്ചറിലേക്ക് സ്വാഗതം ഒരൊറ്റ പ്രോട്ടീനിൽ നോൺ ലീനിയർ ഇലാസ്തികത എങ്ങനെ എൻകോഡ് ചെയ്യാമെന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫൈബ്രോനെക്റ്റിൻ എന്ന ഇ എം പ്രോട്ടീനിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു അപ്പോൾ ഫൈബ്രോനെക്റ്റിന് എഫ് എൻ 1 2 3 എന്നിങ്ങനെ 3 മൊഡ്യൂളുകൾ ഉണ്ട് അതിനാൽ ഇത് ഒരു ഡൈമർ പ്രോട്ടീൻ അഥവാ ഹോമോഡൈമർ ആണ് കൂടാതെ 1 2 3 തുടങ്ങിയ ഈ മൊഡ്യൂളുകൾ സ്വതന്ത്രമായ ഫോൾഡുകൾ ആയി കാണുന്നു അപ്പോൾ ഫോൾഡുകൾ ആയിട്ടുള്ള ഈ ഘടനയിൽ നിന്നും എഫ് എൻ 3 മൊഡ്യൂളിനുള്ളിലെ വ്യക്തിഗത ഡൊമെയ്നുകൾ എങ്ങനെയാണ് ഫോഴ്സുകളോട് പ്രതികരിക്കുന്നത് എന്നും കൂടാതെഅവയ്ക്ക്നമ്മളുടെ സിഗ്നേച്ചറുമായി പരസ്പര ബന്ധം ഉണ്ടായിരിക്കുമോ എന്നീ സംശയങ്ങൾ നമുക്കുണ്ടാകും അതായത് ഇവിടെ നിങ്ങൾ തെർമൽ ഡിനാച്ചുറേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് എഫ് ഇൻറെ മൂന്നാമത്തെ ഡൊമെയ്ൻ ഏറ്റവും സ്റ്റേബിൾ ആണ് അതുകൊണ്ട് ഇത് ഡിനേച്ച്വർ ചെയ്യുന്നതിനായി120 ഡിഗ്രി സെൽഷ്യസ്എടുക്കും ഇതിനെ 48 ഡിഗ്രി സെൽഷ്യസിൽ ഡിനേച്ച്വർ ചെയ്യുന്ന എഫ് എൻ 3 ന്റെ പതിനൊന്നാമത്തെ ഡൊമെയ്നുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം അതിനാൽ നിങ്ങളുടെ കൈയിൽ ഉള്ളത് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റിയുടെ ഒരു വലിയ ശ്രേണിയാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഫോൾഡിങ് ഡൈനാമിക്സ്സുകൾ ഡൈനാമിക്സ് ഫോഴ്സുകളുടെ അധീനത്തിൽ താപനിലകളുടെ അധീനത്തിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായാണ് തന്നെയാണോ പ്രവർത്തിക്കുന്നത് ഇക്കാര്യത്തിൽ ഇതിനോടനുബന്ധിച്ച് നമ്മൾ എ എമ്മിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു കൂടാതെ എ എം ഉപയോഗിച്ച് പ്രോട്ടീൻ അൺ ഫോൾഡിങ് നടത്തുകയാണെങ്കിൽ അതിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും പ്രോട്ടീൻ അൺ ഫോൾഡിങ് പ്രക്രിയയെ സൂചിപ്പിക്കുന്നതായ് ഏത് തരത്തിലുള്ള സിഗ്നേച്ചർ ആണ് നിങ്ങളുടെ പക്കലുള്ളത് എന്നും കാണിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ ചിലത് പുനരാഖ്യാനം ചെയ്യാം നമ്മുടെ പക്കൽ ഒരു ടിപ്പും ഒരു പ്രോട്ടീനും ഉണ്ട് നിങ്ങൾ അത് വലിക്കുകയും വളയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രോട്ടീനുമായി ചേർന്ന് ചില നോൺ സ്പെസിഫിക് ബോണ്ടുകൾ ക്രമരഹിതമായ സ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്നു ഇങ്ങിനെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ സിഗ്നേച്ചർ ഇൽ നിങ്ങൾക്ക് ഈ ഫോഴ്സുകൾ ഇതുപോലെ പോലെ കാണാം ശരി അതിനാൽ ഇതാണ് എൻറെ Z സ്ഥാനം ഇതാണ് എൻറെഡിഫ്ലെക്ഷൻ അതിനാൽ ചോദ്യമിതാണ് ഈ മോഡ്യൂളിന് അകത്തെ വ്യക്തിഗത ഡൊമെയ്നുകളുടെ ഫോൾഡിങ് ഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റബിലിറ്റി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൊമെയ്ൻ A ഉണ്ടെങ്കിൽ ഏത് പ്രോട്ടീൻ കൺസ്ട്രക്ടറ്റ് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് ചോദ്യത്തിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിച്ചു നിങ്ങൾ A A A അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഉപയോഗിക്കുമോ ഞാൻ അനുമാനിച്ചത് എന്തെന്നാൽഈ പ്രത്യേക ഡൊമെയ്ൻ എങ്ങനെയാണ് അൺ ഫോൾഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ A B പോലുള്ള n തവണ ആവർത്തിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതാണ്ബുദ്ധി ശരി അപ്പോൾ നിങ്ങൾ അൺ ഫോൾഡിങ് സിഗ്നേച്ചർ നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്ന ഡൊമെയ്നാണ് എ Domain A കൂടാതെ B നിങ്ങൾക്ക്പ്രോട്ടീൻ സിഗ്നേച്ചർ മുൻപേ തന്നെ അറിയാവുന്ന മറ്റേതെങ്കിലും പ്രോട്ടീന്റെ ഡൊമെയ്നാണ് അതിനാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രോട്ടീൻ രൂപകൽപ്പനചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ഈയൊരു ഒരു ഘടനയുള്ള ഉള്ള ഒരു പ്രോട്ടീൻ കൺസ്ട്രക്ടറ്റ് ആണോ അല്ലെങ്കിൽ ഇതാണോ ഇവ രണ്ടിൽ നിന്നും ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ നമുക്ക് നാല് തവണ എ യും അതിനുശേഷം നാലു തവണ ബി യും ആവർത്തിക്കുന്ന ഈ നിർദ്ദിഷ്ട കൺസ്ട്രക്ടറ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് കരുതാം അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പരീക്ഷണം നടത്തിയെന്നും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ആണെന്നും വിചാരിക്കുക ഇതാണ് നിങ്ങൾക്ക് ലഭിച്ച ഔട്ട്പുട്ട് ഞാൻ മറ്റൊരു കേസ് വരയ്ക്കാം ഈ കേസ്Y യുമായി നിങ്ങൾക്ക് ലഭിച്ച കേസ് X നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനിടയിൽ ഇത്രയും നീളമുള്ള യാതൊരു ഫോഴ്സും മറ്റൊന്നും തന്നെ ഇല്ലാത്ത ഒരു വിടവ് ലഭിച്ചു നിങ്ങളുടെ പക്കൽ ഈ രണ്ടു പീക്കുകൾ ആണ് ഉള്ളത് ഈ രണ്ടു പീക്കുകൾ ഡിറ്റാച്ച്മെന്റ് ഇവൻറ്കളുമായി ആണ് സാദൃശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അതായത് അപ്പോൾ അവ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡൊമൈനിൻറെ പരിണിതഫലമായി അല്ല രൂപപ്പെട്ടിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ സിഗ്നേച്ചറുകൾക്ക് ഇടയിലുള്ള ഈ നീണ്ട വിടവ് നിങ്ങളുടെ പ്രോട്ടീൻ കൺസ്ട്രക്ഷനെയാണ് പ്രതിനിധീകരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് A യിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണംB യാതൊന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല അപ്പോൾ B തീർച്ചയായും അൺ ഫോൾഡ് ചെയ്യുന്നു അതിനർത്ഥം നിങ്ങൾക്ക് അൺ ഫോൾഡ് സിഗ്നേച്ചർ ലഭിക്കേണ്ടതാണ് അതിനാൽ X എന്ന ഒരു കേസിൽ B ഡൊമെയ്നുകളെല്ലാം ഇവിടെയും A ഡൊമെയ്നുകളെല്ലാം ഇവിടെയുള്ളതുമായ പ്രോട്ടീൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറിൽ B യാതൊരു സംഭാവനയും നൽകില്ല ഇത് യാതൊരു ഒരു ഫോഴ്സുകളും ഇല്ലാത്ത ഈ നീണ്ട വിടവ് നിങ്ങളുടെ ഡൊമെയ്ൻ A യുടെ അനന്തരഫലമാണെന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഉറപ്പിക്കാനാവില്ല കാരണം നിങ്ങൾ B യിൽ നിന്ന് ഒരു സംഭാവനയും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾ ഈയൊരു രൂപകൽപ്പന തിരഞ്ഞെടുത്തുവെന്ന് വിചാരിക്കുക നിങ്ങൾക്കറിയാം ബി ഫോഴ്സുകളുടെ സാന്നിധ്യത്തിൽ അൺ ഫോൾഡ് ചെയ്യുമെന്ന് ശരി അതിനാൽ നിങ്ങൾ കണ്ടേക്കാൻ ഇടയുള്ള ഉള്ള നിരവധി പ്രതിനിധി കേസുകൾ ഞാനിവിടെ വയ്ക്കാം ഇത് ഒരു അവസ്ഥയാണ് ആണ് ഇത് മറ്റൊന്ന് B യുടെതായ യാതൊരു സിഗ്നേച്ചറും കാണാതിരുന്ന മുൻപത്തെ കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് B യുടെ ചില സിഗ്നേച്ചറുകൾ രൂപപ്പെട്ടു വരുന്നതാണ് തൽക്കാലം നമുക്ക് ഈ നാലെണ്ണം B യെ സൂചിപ്പിക്കുന്നത് ആണെന്ന് അനുമാനിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും രണ്ട് കേസുകൾ ഉണ്ട് കാരണം എപ്പോഴെല്ലാം നിങ്ങളുടെ ടിപ്പ് പ്രോട്ടീനിനെ സ്പർശിക്കുന്നുവോ അപ്പോഴെല്ലാം A B A B എന്ന സീക്വൻസുകൾ ഇടയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനർത്ഥം B യിൽ ഒരു ഒരു പീക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായുംA യിൽ നിന്നും ഒരു പീക്ക് ലഭിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾക്ക് A B എന്നിവ രണ്ടിൽ നിന്നും സിഗ്നേച്ചർ ലഭിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ A B ഇവയുടെ ആവർത്തിച്ചുള്ള യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതിന്റെ ഗുണം ഇതാണ് തുടർന്ന് നിങ്ങൾ ഈ ഘടന ആവർത്തിക്കുന്നു അപ്പോൾ ഇതിനാലാണ് ആളുകൾ An Bn ന് വിപരീതമായി A B മുഴുവനായും തിരഞ്ഞെടുക്കുന്നത് കാരണം നിങ്ങളുടെ ടിപ്പ് പ്രോട്ടീനെ എവിടെയെല്ലാം സ്പർശിക്കുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതിനാൽ നിങ്ങളുടെ പക്കൽ A B മുഴുവനായും n തവണ ആവർത്തിക്കുന്ന തരത്തിലുള്ള സീക്വൻസ് ഉണ്ടെങ്കിൽ പ്രോട്ടീനിൻറെ ഏതൊരു സ്ഥാനത്ത് നിങ്ങൾ വലിക്കുകയാണെങ്കിലും അവിടെയെല്ലാം നിങ്ങൾക്ക് 2 ഡോമൈനുകൾ ലഭിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് വലിച്ചു അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ലഭിക്കും അതിനാൽ ഈ രണ്ട് കേസുകളും A നിങ്ങൾക്ക് സിഗ്നൽ തന്നേക്കാവുന്ന രണ്ട് സാധ്യതകൾ ആണ് ശരി അതിനാൽ നമുക്ക് ആദ്യം ഈ പ്രത്യേക കേസിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനായി ഞാൻ ഈ കേസ് വീണ്ടും വരയ്ക്കട്ടെ അപ്പോൾ ഇതിനെയും മുൻപത്തെ ഫോഴ്സിനെയും പരിഗണിക്കാതെ കണ്ടെത്താവുന്നന്തെന്നാൽ അത് A B മുഴുവനായും 4 തവണയോളം ആവർത്തിക്കുന്ന ഒരു പ്രോട്ടീൻ നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള B യുടെ ഫോൾഡ്ഡിങ് സിഗ്നേച്ചറുമായി താരതമ്യപ്പെടുപെടുത്താവുന്ന 4 ഫോഴ്സ് പീക്കുകൾ കൂടാതെ ഈ നീണ്ട വിടവും നിങ്ങളുടെ പക്കൽ ഉണ്ട് അപ്പോൾ ഈ ഓരോ ഫോഴ്സുകൾക്കും എനിക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നത് എഫ് ഓഫ് യു f എൽ എഫ് യു L എന്നിവയുടെഅൺ ഫോൾഡിങ് ഫോഴ്സുകളെ പ്രതിനിധീകരിക്കുന്ന ഹിസ്റ്റോഗ്രാം ആണ് അതിനാൽ ഈ പീക്കുകളെ പറ്റി എനിക്ക് അ നിശ്ചിത ഫോഴ്സ് പീക്കും നിശ്ചിത ലെങ്ത്പീക്കും ലഭിച്ചുവെന്ന് പറയാം അതിനാൽ L L L L എന്നഈ ഓരോ നീളവും ഈ ഹിസ്റ്റോഗ്രാം Histogram ഇൽ ഉൾപ്പെടും കൂടാതെ നിങ്ങൾക്ക് B യുടെ അൺ ഫോൾഡിങ് നീളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു എൽഓഫ് യു L കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഓരോ L ഉം B യുടെ ഒരു ഡൊമൈനിൻറെ അൺ ഫോൾഡിങ് ആണ് പ്രതിനിധീകരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഈ പീക്കിൻറെതായ ഫോഴ്സിൻറെ അഭാവത്തെയാണ് അതിനാൽ ഇത് ഏകദേശം 0 ഫോഴ്സുകൾ ഉള്ളതും നീണ്ടതുമായ ആയ ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ് സിഗ്നേച്ചർ ഈ പ്രത്യേക ഡൊമെയ്ൻ അസംഘടിതം ആണെന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നമുക്ക് ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാം ഞാൻ പറയുന്നത് എന്തെന്നാൽ A ഘടനയില്ലാത്ത ഒരുഡൊമെയ്നാണ് ഞാൻ എന്തിൻറെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നാൽ ഈ ലളിതമായ കാരണത്താൽ ആണ് നിങ്ങളുടെ പക്കലുള്ളത് ഞാൻ വരച്ച ഇതു പോലെയുള്ള ഒരു പ്രോട്ടീനാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതെല്ലാമാണ് ആണ് ഫോൾഡുകൾ ഇവയെല്ലാം അസംഘടിതം ആണ് ഇനി നമുക്ക് കരുതാം നീളമാണ് ആണ് L ഇപ്പോൾ ഘടനയില്ലാത്തതിനാൽ ഈ പ്രോട്ടീന് ഇതുപോലൊരു കോൺഫിഗറേഷൻ ഉണ്ടാകില്ല മറിച്ച് ഇതിന് ഇങ്ങിനെ ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഘടന ഇല്ലാത്ത ഈ പ്രത്യേക ഡൊമൈൻ A നിവർത്തുവാൻ ആയി തുച്ഛമായ ഫോഴ്സ് എടുക്കുന്നു അപ്പോൾ ഘടനയില്ലാത്ത ഡൊമൈനുകളെ നിവർത്തുന്നതിനായി നിങ്ങൾക്ക് ചെറിയതോതിലുള്ള ഫോഴ്സുകൾ അപ്പോഴും ആവശ്യമായി വരും അതിനാൽ ആ കേസിൽ ഈ ദൈർഘ്യം എന്തിനോട് യോജിക്കുന്നു ഈ ദൈർഘ്യംനീളം ഘടനയില്ലാത്ത ഡൊമെയ്നിന്റെ 4 മടങ്ങ് നീളവുമായി യോജിക്കുന്നു അപ്പോൾ ഏതാണ്ട് 0 ഫോഴ്സിന്റെ ഈ നീണ്ട വിടവ് മറ്റൊന്നുമല്ല A യുടെ ഘടനയില്ലാത്ത ഒരു ഡൊമെയ്നിന്റെ 4 മടങ്ങ് നീളം മാത്രമാണ് അതിനാൽ ഘടനാപരമായ ഒരു ഭാഗം ഇല്ലാത്ത എ ഡൊമെയ്ൻ ആണ് നിങ്ങളുടെ പക്കൽ ഉള്ളതെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള കേസ് ആണിത് ഇനി നമുക്ക് മറ്റൊരു കേസ് എടുക്കാം അപ്പോൾ ഇവയാണ് എൻറെ ഡിറ്റാച്ച്മെന്റ് പീക്കുകൾ ഈ 4 എണ്ണം B യുമായി യോജിക്കുന്നുവെന്ന് എനിക്കറിയാം അതിനാൽ ഡൊമെയ്ൻ Domain B യുടെ അൺ ഫോൾഡിങ്ങുകൾ ഫോൾഡ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 0 ഫോഴ്സുകൾ ഓട് കൂടിയ ചെറിയ വിടവും അവയ്ക്ക് ശേഷം ചെറിയ ഈ പീക്കുകളും ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ പക്കൽ 3 ഇനങ്ങൾ ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു അൺ ഫോൾഡിങ് സിഗ്നേച്ചർകൂടാതെ മറ്റ് രണ്ടു ഇനങ്ങൾ കൂടി ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാൻ കഴിയുന്നത് ഫോഴ്സ് പീക്ക് പ്ലോട്ട് ചെയ്യുക എന്നതാണ്ഞാൻ B യുടേത് പ്ലോട്ട് ചെയ്യുന്നില്ല എന്നാൽ ഇവയ്ക്ക്നിങ്ങൾക്ക് ഒരു ചെറിയ ഫോഴ്സ് പീക്കും അതിന് അനുബന്ധമായി ആയി ലെങ്ത് പീക്കും ലഭിക്കും ഞാൻ ഇതു തന്നെ Bയുടേതും വരയ്ക്കട്ടെ ഇത് B യുടേതാണ് നിങ്ങൾക്ക് 2 സോണുകൾ ആണ് ഉള്ളത് ഫോഴ്സിന്റെ ഒരു സോണും അതിനുശേഷം ഈ 4 പീക്കുകളും ഉണ്ട് അതിനാൽ എനിക്ക് ഈ ഫോഴ്സ് പീക്കും ലെങ്ത് പീക്കും ഭാഗികമായി A യുടേതാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും 0 ഫോഴ്സ് ഉം ഡൊമെയ്ൻ നീട്ടപ്പെടുകയും ചെയ്യുന്ന ഈ ചെറിയ സോൺ ഉണ്ട് അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ A എന്നത് ഭാഗികമായി ഘടനയില്ലാത്തതും ഭാഗികമായി ഫോൾഡഡും Folded ആണ് അതിനാൽ എ ക്ക്2 സോണുകൾ ഉണ്ടെന്നും അതിൽ ഒരു ഭാഗം അൺ ഫോൾഡ് ചെയ്യുവാൻ ചെറിയ ഒരു ഫോഴ്സ് ആവശ്യമുള്ള ഫോൾഡ് ഓടു കൂടിയതും മറ്റൊരു ഭാഗം ഘടന ഇല്ലാത്തതും ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇത് ആയിരിക്കാം മറ്റൊരു സാധ്യത ഇവിടെ നമുക്ക് A എന്നത് സ്റ്റേബിൾ ആണ് എന്ന് പറയാം കൂടാതെ തീർച്ചയായും സ്റ്റേബിൾ ആയB യും നിങ്ങളുടെ പക്കൽ ഉണ്ട് ഈ സാഹചര്യത്തിൽ എൻറെ പക്കൽ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കാം അതിനാൽ ഞാൻ വീണ്ടും വരയ്ക്കുന്നതിൽ അവസാന 2 ഫോഴ്സുകളെ അവഗണിക്കാൻ എനിക്ക് കഴിയും അതിനാൽ ഞാൻ B യുടെ 2 പീക്കും A യുടെ 3 പീക്കും വരച്ചിട്ടുണ്ട് ഇത് പ്രതിനിധികരിക്കുന്ന ഒരു കർവ് ആണ് ഇത്തരത്തിലുള്ള ഉള്ള പ്രോട്ടീൻ അൺ ഫോൾഡിങ് പരീക്ഷണങ്ങൾ മതിയായ സ്റ്റാറ്റിസ്റ്റിക്സ്സുകൾ സൃഷ്ടിക്കുന്നതിനായി നിരവധി തവണ ചെയ്യേണ്ടതുണ്ടെന്നത് മനസ്സിലാക്കുക അങ്ങിനെയാണ് നിങ്ങൾക്ക് ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുക അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ 3 A യും 2 B യും വരച്ചു ഇനി B യുടെ പ്രോട്ടീൻ ഫോൾഡിങ് സിഗ്നേച്ചർ എനിക്ക് അറിയാമെങ്കിൽ തീർച്ചയായും A യുടെ സിഗ്നേച്ചർ ലഭിക്കുമെന്ന് ഉറപ്പായും അറിയാം എനിക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയുംഎങ്ങനെയെന്നാൽ അനവധി എണ്ണം റെസിഡ്യൂ ഉണ്ടെങ്കിൽ അവയുടെ മൊത്തം അൺ ഫോൾഡിങ് ലെങ്ത് മൊത്തം റെസിഡിയു കളുടെ എണ്ണം ഗുണനം0 38 നാനോമീറ്ററിന് തുല്യമായിരിക്കും എന്ന അറിവിലൂടെ ആണ് ഒരു അമിനോ ആസിഡിന്റെ ഏകദേശം നീളമാണിത് അതിനാൽ അൺ ഫോൾഡഡ്ലെങ്ത് നിങ്ങൾക്കറിയാം കൂടാതെ A എന്നത്ഭാഗികമായി ഘടനയില്ലാത്തതും ഭാഗികമായി ഫോൾഡഡും ആയിട്ടുള്ള സന്ദർഭത്തിലും ഈ ഫോർമുല ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും കണ്ടെത്താനാകും ഈ സാഹചര്യത്തി ൽ നിങ്ങളുടെ പ്രോട്ടീൻ ഇൽ ഈ 2 ഘടകങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ രണ്ടു നീളവും തമ്മിൽ കൂട്ടുവാൻ കഴിയും അപ്പോൾ ഈ കേസിൽഇത് രണ്ടും അതും തമ്മിൽ കൂട്ടുമ്പോൾ ലഭിക്കുന്ന ദൈർഘ്യം മൊത്തംഅൺ ഫോൾഡഡ്ലെങ്ത്തിൻറെ അകത്തുക ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഞാൻ ഇവിടെ വരച്ച കേസിൽ ഞാൻ 4 ചെറിയ പീക്കുകകളും Peak ഒരു അൺ സ്ട്രക്ചചേട് ലെങ്ത്തും ആണ് കാണിച്ചിട്ടുള്ളത് അൺ സ്ട്രക്ചചേട് ലെങ്തത്തിൻറെ 4 മടങ്ങിനോട് കൂടി ഘടനയില്ലാത്ത നീളവും ഭാഗികമായി ഫോൾഡഡ് ആയിട്ടുള്ളതിൻറെ നീളവും കൂട്ടുകയും അതിനെ 0 38 നാനോമീറ്ററുകൾ കൊണ്ട് ഗുണിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻനീളവും ലഭിക്കുമെന്നത് ഇനി നമുക്ക് ഒരു സാധ്യതയെക്കുറിച്ച ചിന്തിക്കാം നമ്മുടെ യഥാർത്ഥ ഡൊമെയ്നിൽ FN 3 മൊഡ്യൂളിന്റെ 15 ഡൊമെയ്നുകൾ ഉണ്ട് അതിനാൽ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഡൊമെയ്നുകൾ പരസ്പരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് 1 2 എന്നിവ തമ്മിൽ അതിനാൽ അടുത്തടുത്ത് കിടക്കുന്ന ഡൊമെയ്നുകൾ പരസ്പരം സ്റ്റെബിലൈസ് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ1 Bn വേഴ്സസ് 1 2n എന്ന ഒരു പ്രോട്ടീൻ കൺസ്ട്രക്റ്റ് ഉണ്ടെങ്കിൽ അതായത് അൺ ഫോൾഡിങ് സിഗ്നേച്ചർ അറിയാവുന്ന B യുമായി കപ്പിൾ ചെയ്തിരിക്കുന്ന ഈയൊരു ഡൊമൈൻ വേഴ്സസ് n തവണ ആവർത്തിക്കുന്നതും ഒന്നും രണ്ടും അടുത്തടുത്ത് ഇരിക്കുന്നതും ആയ ഡൊമൈൻ താരതമ്യം ചെയ്യാം അതിനാൽ നിങ്ങൾ കാണുന്നത് ഫോഴ്സ് അൺ ഫോൾഡിങ് സിഗ്നേച്ചർ ആണ് അതിനാൽ ഇവിടെ ഈ f11ഡൊമെയ്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കൂടാതെ ഈ കൺസ്ട്രക്ടറ്റിൽ f2 എന്നത് 1ഡൊമെയ്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു f 1 നേക്കാൾ വലുതാണ് f2 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമീപത്തുള്ള ഡൊമൈൻ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അളക്കുന്ന f1 f2 നേക്കാൾ വലുതായിരിക്കുമെന്ന് എന്ന് നിങ്ങൾ കണ്ടേക്കാം ഇനി സമീപത്തുള്ള ഡൊമെയ്നുകൾ പരസ്പരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ f1 f2 വിന് തുല്യമായിരിക്കും അപ്പോൾ ഇത് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തപ്പോഴും f2 f1നേക്കാൾ വലുതാവുന്നത് സ്റ്റെബിലൈസേഷൻ ഉള്ളപ്പോഴും ആണ് അതിനാൽ ഈ തന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 2 തുടങ്ങി എല്ലാ ഡൊമെയ്നുകളുടെയും 1 അൺ ഫോൾഡിങ് ഫോഴ്സ് സിഗ്നേച്ചർ സൈദ്ധാന്തികമായി നിർണ്ണയിക്കാനാകും അപ്പോൾ ഞാൻ വീണ്ടും ഈ തന്ത്രങ്ങൾ എഴുതുകയാണെങ്കിൽ വിവിധ പ്രോട്ടീൻ കൺസ്ട്രക്ടറ്റുകൾ നിർമ്മിക്കുക അവ ഫോൾഡ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക അൺ ഫോൾഡിങ് സിഗ്നേച്ചർ നിർണയിക്കുകഅതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ പീക്കിൻറെയും ഫോഴ്സുകൾ മാപ്പ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് മുഴുവൻ ഫൂട്ടിങ്ൻറെയും അൺ ഫോൾഡിങ് സിഗ്നേച്ചർ നിങ്ങൾ നിർണയിച്ചു എന്ന് അനുമാനിക്കാം ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ECMപ്രോട്ടീനുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെല്ലുകൾ ഉണ്ടെന്നു പറയാം അതായത് ഫൈബ്രോണെക്റ്റിൻ മാട്രിക്സിൽ സ്ഥിതി ചെയ്യുന്നവ ഇത് A എന്ന തരം സെൽ ആണ് ഇത് B എന്ന തരം സെൽ ആണ് അതിനാൽ സിഗ്നലിംഗ് സെൽ A സെൽ B യ്ക്ക് എതിരായി ചെലുത്തുന്ന ഫോഴ്സിൻറെ വ്യാപ്തിയെ ആശ്രയിച്ചാണ് സിഗ്നലിങ് എന്നതാണ് അൺ ഫോൾഡിങ് സിഗ്നേച്ചർ നിങ്ങളോട്പറയുന്നത് അടുത്ത ചോദ്യം എന്തെന്നാൽ വലിക്കുന്നതിൻറെ നിരക്ക് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആദ്യത്തേത് വലിക്കുന്നതിൻറെ ഫോഴ്സും രണ്ടാമത്തേത് വലിക്കുന്നതിന്റെ അല്ലെങ്കിൽ ചുരുങ്ങുന്നതിൻറെ നിരക്ക് ആണ് 2 രണ്ട് വ്യത്യസ്ത നിരക്കിൽ വലിക്കുന്നതിൻറെ ഫോഴ്സുകൾ ചെലുത്തുന്ന രണ്ട് തരം സെല്ലുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് അതിനാൽ ആ പരീക്ഷണം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം എന്തെന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ ഉണ്ട് നിങ്ങൾ മാറ്റം വരുത്തുന്നത് വലിക്കുന്നതിന്റെ നിരക്ക് അല്ലെങ്കിൽ ടിപ്പ് വേഗതയാണ് അപ്പോൾ ടിപ്പ് വേഗത മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകരിക്കാനാകും അതിനാൽ ഉയർന്ന വേഗതയ്ക്ക് തുല്യമായി വലിക്കുന്ന നിരക്ക് കൂടുന്നു ഇതിൽ നിന്നും നിരീക്ഷിക്കുന്നത് എന്തെന്നാൽ ഇത് എൻറെ ഫോഴ്സ് ആണ് ഇത് ഫ്രീക്വൻസി യും നമുക്ക് പറയാം ഒരു നിശ്ചിത ടിപ്പ് വേഗത വി ഉള്ള ഒരു ഡൊമൈൻ തന്നിരിക്കുന്നു കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ പല പ്രോട്ടീനുകൾക്കും ഡൊമൈനകൾക്കും V യിനെകാൾ ചെറിയ ടിപ്പ് വേഗത വിപ്രൈം V' ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രോട്ടീനിനെ പതുക്കെവലിക്കുകയാണെങ്കിൽ f പ്രൈമും f ' f നേക്കാൾ കുറവ് ആയിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോട്ടീൻ പതുക്കെ വലിക്കുകയാണെങ്കിൽ ആ പ്രോട്ടീൻ അൺ ഫോൾഡ് ചെയ്യുന്നതിന് കുറഞ്ഞ അളവിലുള്ള ഫോഴ്സ്മാത്രമേ ആവശ്യമുള്ളൂ ഇത് കൌതുകകരമായ ഒരു വസ്തുതയാണ് എന്നാൽ ഒരേ അളവിലുള്ള ഫോഴ്സ് പ്രയോഗിച്ചാലും പ്രോട്ടീൻ വലിക്കുന്ന നിരക്കും പ്രാധാന്യമർഹിക്കുന്നു അതോടുകൂടി ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ ഇവിടെ നിന്ന് തുടരാം പ്രോട്ടീൻഅൺ ഫോൾഡിങ്ങിൻറെ മറ്റൊരു വശത്തെ പറ്റി ചിലത് ചർച്ച ചെയ്തതിനുശേഷം പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോക്കൽ പറ്റിയാണ്